ഈ പാഠത്തിൽ റെസിപ്രോസിറ്റി എന്നറിയപ്പെടുന്ന റെസിസ്റ്റീവ് നെറ്റ്വർക്കുകളുടെ ഒരു പ്രധാന പ്രോപ്പർട്ടി നമ്മൾ നോക്കുന്നു ഇപ്പോൾ രണ്ട് പോർട്ട് പാരാമീറ്ററുകൾക്കായി നമ്മൾ വിലയിരുത്തിയ ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് മടങ്ങാം അതിനാൽ നമ്മൾ വിലയിരുത്തിയ സർക്യൂട്ടുകളിലൊന്ന് ഇത് വളരെ ലളിതമായ സർക്യൂട്ട് ആണ് 1 കിലോ ഓം വീതമുള്ള രണ്ട് റെസിസ്റ്ററുകൾ മാത്രമേയുള്ളൂ ഇവയാണ് പാരാമീറ്റർ സെറ്റുകൾ ഇതാണ് y മാട്രിക്സ് z മാട്രിക്സ് h മാട്രിക്സ് g മാട്രിക്സ് ഇപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കാവുന്ന രസകരമായ കാര്യം y12 ഉം y21 ഉം ഉള്ള പകുതി ഡയഗണൽ ഘടകങ്ങൾ പരസ്പരം തുല്യമാണ് എന്നതാണ് അതുപോലെ z12 z21 എന്നിവ പരസ്പരം തുല്യമാണ് നിങ്ങൾ മറ്റ് രണ്ട് പാരാമീറ്ററുകൾ നോക്കുകയാണെങ്കിൽ h12 എന്നത് h21 ന് തുല്യമല്ല എന്നാൽ h21 എന്നത് കൃത്യമായി h21 ആണ് അതുപോലെ g12 കൃത്യമായി g21 z12 z21 y12 y21 h12 h21 g12 g21 അതിനാൽ പരാമീറ്റർ 1 2 ഉം പാരാമീറ്റർ 2 1 ഉം തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് തോന്നുന്നു അതായത് പോർട്ട് 1 ൽ നിന്ന് പോർട്ട് 2 ലേയ്ക്കും പോർട്ട് 2 ൽ നിന്ന് പോർട്ട് 1 ലേക്കുമുള്ള ട്രാൻസ്മിഷൻ അതിനാൽ ഇപ്പോൾ ചോദ്യം ഇതാണ് ഇത് യാദൃശ്ചികം മാത്രമാണോ തീർച്ചയായും z11 z22 എന്നിവയ്ക്ക് അത്തരം ബന്ധമൊന്നുമില്ല അവ ഏകപക്ഷീയമായിരിക്കാം ഇവിടെയും അവ പരസ്പരം തികച്ചും വ്യത്യസ്തമാണ് ഇപ്പോൾ പാരാമീറ്റർ 1 2 2 1 തമ്മിലുള്ള ഈ ബന്ധം യാദൃശ്ചികമാണോ അതോ നെറ്റ്വർക്കുകളുടെ എന്തെങ്കിലും പ്രത്യേക പ്രോപ്പർട്ടി ആണോ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ച പ്രോപ്പർട്ടി ശരിയല്ലാത്ത നെറ്റ്വർക്കുകളും നമ്മൾ കണ്ടു ഉദാഹരണത്തിന് ഇത് മറ്റൊരു സർക്യൂട്ടാണ് ഈ സാഹചര്യത്തിൽ തീർച്ചയായും y11 y12 ന് തുല്യമല്ല z11 z12 ന് തുല്യമല്ല അതിനാൽ അവയ്ക്ക് പരസ്പരം തുല്യമല്ലാത്ത ചില സംഖ്യകളുണ്ട് അതിനാൽ ഈ കേസിൽ ഫോർവേഡ് റിവേഴ്സ് പാരാമീറ്ററുകൾ തമ്മിൽ ഒരു പ്രത്യേക ബന്ധം തോന്നുന്നില്ല ഇപ്പോൾ പ്രവർത്തനങ്ങളുടെയോ അസൈൻമെന്റുകളുടെയോ ഭാഗമായി മറ്റ് നെറ്റ്വർക്കുകളുടെ രണ്ട് പോർട്ട് പാരാമീറ്ററുകൾക്കായി നിങ്ങൾ പരിഹരിക്കുമായിരുന്നു അതിൽ റെസിസ്റ്ററുകൾ മാത്രം ഉൾപ്പെടുന്നു ഈ നെറ്റ്വർക്കും നമ്മൾ നോക്കിയ മറ്റൊന്നും തമ്മിലുള്ള വ്യത്യാസം ഈ സർക്യൂട്ടിൽ നിയന്ത്രിത സ്രോതസ്സുകൾ ഉൾപ്പെടുന്നു എന്നാൽ ഇതിൽ ഉൾപ്പെടുന്നില്ല അതിനാൽ ഇപ്പോൾ ചോദ്യം ഇതാണ് ഇത് യാദൃശ്ചികമാണോ അതോ ഇത് റെസിസ്റ്റീവ് നെറ്റ്വർക്കുകളുടെ പ്രത്യേക സവിശേഷത ആണോ എന്നതാണ് എല്ലാ റെസിസ്റ്റീവ് നെറ്റ്വർക്കുകൾക്കും ഈ സവിശേഷത ഉണ്ടെങ്കിൽ ഇത് മാറുന്നു ഇതിൽ നിന്ന് മാത്രമല്ല നമ്മൾ പരിഹരിച്ച മറ്റ് പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ ഇത് ശ്രദ്ധിക്കുമായിരുന്നു ഇത് പരസ്പരബന്ധം എന്നറിയപ്പെടുന്നു അതായത് നിങ്ങൾക്ക് പൂർണ്ണമായും പ്രതിരോധശേഷിയുള്ള രണ്ട് പോർട്ട് നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ ഫോർവേഡ് ട്രാൻസ്മിഷനും റിവേഴ്സ് ട്രാൻസ്മിഷനും തമ്മിൽ അടുത്ത ബന്ധമുണ്ട് നിങ്ങൾ അവയെ y അല്ലെങ്കിൽ z പാരാമീറ്ററുകളുടെ അടിസ്ഥാനത്തിൽ വിവരിക്കുകയാണെങ്കിൽ അവ പരസ്പരം തുല്യമാണ് തുടർന്ന് g അല്ലെങ്കിൽ h പാരാമീറ്ററുകൾ അവ പരസ്പരം നിഷേധാത്മകമാണ് അതിനാൽ പിന്നീട് ഈ യൂണിറ്റിൽ നമ്മൾ പരസ്പര സിദ്ധാന്തം തെളിയിക്കാൻ പോകും അതിനാൽ ഇപ്പോൾ ഞാൻ അത് പ്രസ്താവിക്കുന്നു ഇപ്പോൾ വ്യത്യസ്ത പാരാമീറ്റർ സെറ്റുകൾ തമ്മിലുള്ള ബന്ധം ഞാൻ ഇവിടെ പട്ടികപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ ഞാൻ പാരാമീറ്റർ 1 1 1 2 2 1 2 2 എന്നിവ ലിസ്റ്റ് ചെയ്തു കൂടാതെ ഞാൻ z പാരാമീറ്ററുകൾ എന്റെ പ്രാഥമിക പ്രാതിനിധ്യ മാർഗമായി എടുത്തിട്ടുണ്ട് കൂടാതെ z പാരാമീറ്ററുകളുടെ അടിസ്ഥാനത്തിൽ മറ്റ് രണ്ട് പോർട്ട് പാരാമീറ്ററുകളെയും ഞാൻ പ്രതിനിധീകരിക്കുന്നു ഉദാഹരണത്തിന് നിങ്ങൾ y11 നോക്കുകയാണെങ്കിൽ 2 x 2 മാട്രിക്സ് വിപരീതമാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ കഴിയും y11 എന്നത് z22 ∆z ആയി മാറുന്നു ഈ ∆z എന്നത് z പാരാമീറ്റർ മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്നാണ് അർത്ഥമാക്കുന്നത് അതുപോലെ y12 മാറുന്നു - z12 ∆z y21 z21 ∆ z y22 z11 ∆ z ഇപ്പോൾ z12 z21 ആണെങ്കിൽ y12 എന്നത് y21 ന് തുല്യമായിരിക്കും എന്ന് നിങ്ങൾ വ്യക്തമായി കാണുന്നു എന്നതാണ് കാര്യം ഇപ്പോൾ ഒരു സർക്യൂട്ട് z പാരാമീറ്ററുകളിൽ പരസ്പരവിരുദ്ധമല്ല y പരാമീറ്ററുകളിൽ അല്ല അല്ലെങ്കിൽ മറ്റ് പാരാമീറ്ററുകൾ അതുപോലെ ഇവയാണ് h പാരാമീറ്ററുകൾക്കുള്ള എക്സ്പ്രഷനുകൾ ഇപ്പോൾ ഞാൻ h12 ഉം h21 ഉം മാത്രം നോക്കും h21 എന്നത് z12 z 22 h21 z21 z22 ആണ് അതിനാൽ വ്യക്തമായും z12 എന്നത് z21 ന് തുല്യമാണെങ്കിൽ h12 എന്നത് h21 ആയിരിക്കും അതിനാൽ h പരാമീറ്ററുകളുടെ അടിസ്ഥാനത്തിൽ അത് പരസ്പര ബന്ധമാണ് അതുപോലെ നിങ്ങൾ g പാരാമീറ്ററുകൾ നോക്കുകയാണെങ്കിൽ g12 ആണ് z12 z11 ഉം g21 എന്നത് z21 z11 ഉം ആണ് z12 z21 ആണെങ്കിൽ g12 g21ആയിരിക്കും അതിനാൽ ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത് പരസ്പരബന്ധം നെറ്റ്വർക്കിന്റെ ഒരു പ്രോപ്പർട്ടി ആണ് നെറ്റ്വർക്കിനെ വിവരിക്കാൻ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പരാമീറ്ററുകളുമായി ഇത് ബന്ധപ്പെട്ടതല്ല അതിനാൽ രണ്ട് പോർട്ട് നെറ്റ്വർക്കിന്റെ ഫോർവേഡ് പാരാമീറ്ററും റിവേഴ്സ് പാരാമീറ്ററും തമ്മിലുള്ള ചില പ്രത്യേക ബന്ധത്തെയാണ് പരസ്പരബന്ധം സൂചിപ്പിക്കുന്നത് അത് മികച്ചതാണ് അതായത് രണ്ട് പോർട്ടുകളെ പ്രതിനിധീകരിക്കാൻ നിങ്ങൾ ഏത് പാരാമീറ്റർ സെറ്റ് തിരഞ്ഞെടുത്താലും പരസ്പരബന്ധം നന്നായി നിലനിൽക്കും അതിനാൽ ഈ ബന്ധങ്ങളിൽ നിന്ന് z12 z21 ന് തുല്യം എന്നത് സൂചിപ്പിക്കുന്നത് y12 y21 ആണ് അല്ലെങ്കിൽ h12 എന്നത് h21 ന് തുല്യം സൂചിപ്പിക്കുന്നു അല്ലെങ്കിൽ g12 g21 ന് തുല്യമാണ് ഇത് ശരിയാണോ ഇവ വളരെ ഉപയോഗപ്രദമായ ബന്ധങ്ങളായി മാറുന്നു കാരണം ചില തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ ചില തരത്തിലുള്ള സർക്യൂട്ടുകൾ പരിഹരിക്കുന്നതിന് അവ നിങ്ങൾക്ക് ഒരു എളുപ്പ വഴി നൽകുന്നു ഇപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു z12 0 ആയിരുന്നു അതായത് z പരാമീറ്ററുകളിൽ റിവേഴ്സ് ട്രാൻസ്മിഷൻ ഇല്ല പിന്നെ അതായത് നിങ്ങൾ y12 h12 g12 എന്നിവ തിരഞ്ഞെടുക്കുന്നത് പരിഗണിക്കാതെ തന്നെ റിവേഴ്സ് ട്രാൻസ്മിഷൻ പാരാമീറ്റർ 0 ആയിരിക്കും കൂടാതെ റിവേഴ്സ് ട്രാൻസ്മിഷൻ പാരാമീറ്റർ 0 ആയ അത്തരമൊരു നെറ്റ്വർക്ക് ഒരു യൂണിലാറ്ററൽ നെറ്റ്വർക്ക് എന്ന് അറിയപ്പെടുന്നു അതുപോലെ ഫോർവേഡ് പാരാമീറ്റർ z പാരാമീറ്ററുകളിൽ 0 ആണെങ്കിൽ അതായത് z21 0 ആണെങ്കിൽ ഫോർവേഡ് പാരാമീറ്റർ y21 h21 അല്ലെങ്കിൽ g21 എന്നിവയും 0 ആയിരിക്കും അതിനാൽ ഈ പ്രോപ്പർട്ടികൾ ഏകപക്ഷീയമോ പരസ്പരമോ ആയത് നെറ്റ്വർക്കിന്റെ ഒരു സവിശേഷത മാത്രമാണ് നെറ്റ്വർക്കിനെ വിവരിക്കാൻ നിങ്ങൾ തിരഞ്ഞെടുത്ത പാരാമീറ്റർ സെറ്റ് പരിഗണിക്കാതെ തന്നെ അത് നല്ലതായിരിക്കും ഒരു റെസിപ്രോക്കൽ നെറ്റ്വർക്ക് റെസിപ്രോക്കൽ രണ്ട് പോർട്ട് നെറ്റ്വർക്ക് അർത്ഥമാക്കുന്നത് ഫോർവേഡ് റിവേഴ്സ് പാരാമീറ്ററുകൾ തുല്യമാണെന്നും നിങ്ങൾ z y പാരാമീറ്ററുകൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ g h പാരാമീറ്ററുകൾക്ക് തുല്യവും വിപരീതവുമാണ് എന്നാണ് ഇപ്പോൾ ഒരു യൂണിലാറ്ററൽ നെറ്റ്വർക്ക് ഇതാണ് ഒന്നുകിൽ ഫോർവേഡ് പാരാമീറ്റർ 0 ആണെന്ന് പറയാം ഇതിനർത്ഥം പോർട്ട് 2 മുതൽ പോർട്ട് 1 വരെ ഒരു നിയന്ത്രണമുണ്ടെന്നാണ് എന്നാൽ പോർട്ട് 1 മുതൽ പോർട്ട് 2 ലേക്ക് അല്ല അല്ലെങ്കിൽ റിവേഴ്സ് പാരാമീറ്റർ 0 ആണ് അതായത് പോർട്ട് 1 മുതൽ പോർട്ട് 2 വരെ നിയന്ത്രണമുണ്ട് പോർട്ട് 2 മുതൽ പോർട്ട് 1 വരെ അല്ല തീർച്ചയായും ഇവ രണ്ടും 0 ആണെങ്കിൽ ഫോർവേഡ് റിവേഴ്സ് പാരാമീറ്ററുകൾ 0 ആണെങ്കിൽ അതിനർത്ഥം പോർട്ട് 1 നും പോർട്ട് 2 നും ഇടയിൽ ആശയവിനിമയം ഇല്ല എന്നാണ് നിങ്ങൾക്ക് രണ്ട് വ്യത്യസ്ത സർക്യൂട്ടുകളും രണ്ട് വ്യത്യസ്ത പ്രതിരോധങ്ങളും ഉണ്ടായിരിക്കാം ഒന്ന് പോർട്ട് 1 ലേക്ക് കണക്റ്റ് ചെയ്തതും ഒന്ന് പോർട്ട് 2 ലേക്ക് കണക്റ്റ് ചെയ്തതും തീർച്ചയായും ഇത് വളരെ രസകരമായ രണ്ട് കാര്യമല്ല പോർട്ട് നെറ്റ്വർക്ക്ൽ രണ്ട് പോർട്ടുകളും തമ്മിൽ ബന്ധമില്ലെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ കാര്യവും രണ്ട് വ്യത്യസ്ത പോർട്ട് നെറ്റ്വർക്കുകളായി കണക്കാക്കാം അതിനാൽ ഇവിടെ ഞാൻ ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുന്ന പ്രധാന കാര്യം റെസിപ്രൊസിറ്റി എന്നും മറ്റൊന്ന് യൂണിലാറ്ററൽ എന്നും വിളിക്കുന്നു നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പാരാമീറ്റർ സെറ്റുമായി ഇവ ബന്ധമില്ലാത്തവയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെന്തും അവ സമാനമായിരിക്കും അത് നമ്മൾ ശ്രദ്ധിക്കുന്നു അതായത് റെസിസ്റ്റീവ് നെറ്റ്വർക്കുകൾക്ക് ഫോർവേഡ് റിവേഴ്സ് പാരാമീറ്ററുകൾ തമ്മിൽ ചില പ്രത്യേക ബന്ധമുണ്ട് അവ പരസ്പരവിരുദ്ധമാണെന്ന് തോന്നുന്നു അതായത് ഫോർവേഡ് ട്രാൻസ്മിഷന്റെ അളവ് റിവേഴ്സ് ട്രാൻസ്മിഷന്റെ അളവ് ആണ് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ തിരഞ്ഞെടുത്ത പ്രത്യേക ഉദാഹരണം ഇത് കേവലം യാദൃശ്ചികമല്ല ഇത് റെസിസ്റ്റീവ് നെറ്റ്വർക്കിന്റെ ഒരു പൊതു സവിശേഷത ആണ് അത് അടുത്ത പാഠത്തിൽ നമ്മൾ തെളിയിക്കാൻ പോകുന്നു